പുതിയൊരു മൊഡ്യൂളിലേക്കു സ്വാഗതം കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ ഓപ് ആംപിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് ചർച്ചചെയ്യാം പീക്ക് ഡിറ്റക്ടർ എന്ന നിലയ്ക്കുള്ള ഓപ് ആംപിന്റെ ഉപയോഗമാണ് നാം നോക്കുന്നത് തുടർന്ന് നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷനുകൾ പരിശോധിക്കാം ഓപ് ആംപിന്റെ ലളിതമായ ഉപയോഗങ്ങളാണ് നാം കണ്ടത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ബയാസ് കറന്റ് എന്നിവയാണ് നമ്മുടെ ഉപയോഗത്തിൽ വന്നത് അല്പം സങ്കീർണമായ ഒരു സർക്യൂട്ടും കണ്ടു ഇനി യഥാർത്ഥ ഇലക്ട്രോണിക് മൊഡ്യൂകളിൽ ഉപയോഗിക്കാവുന്ന സർക്യൂട്ട് ആണ് പരിശോധിക്കുന്നത് എഡിസികളിലെ പീക്ക് ഡിറ്റക്ടർ പോലുള്ള ആപ്ലിക്കേഷനുകൾ നമുക്കു നോക്കാം ഓപ് ആംപ് ഉപയോഗിച്ച് രൂപകല്പന ചെയ്യാവുന്നതും പിന്നീട് കൂടുതൽ സങ്കീർണമായ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാവുന്നതുമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നമുക്കു നോക്കാം അതായത് ഇതിന്റെ ഉപയോഗം കൂടുതൽ സങ്കീർണമാകുന്നു പീക്ക് ഡിറ്റക്ടറിൽ ഓപ് ആംപ് എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഇവിടെ പരിശോധിക്കാം ഇത് എങ്ങനെ രൂപകല്പന ചെയ്യാം എന്നത് സ്ക്രീനിൽ നോക്കാം പീക്ക് ഡിറ്റക്ടർ എന്ന നിലയിൽ ഓപ് ആംപിന്റെ പ്രവർത്തനത്തെക്കുറിച്ചു പറയുമ്പോൾ എന്താണ് പീക്ക് ഡിറ്റക്ടർ എന്ന് ആദ്യം മനസിലാക്കണം ഇൻപുട്ടിന്റെ പീക്ക് വാല്യൂ കണ്ടെത്തലാണ് പീക്ക് ഡിറ്റക്ടറിന്റെ ഫങ്ഷൻ അപ്പോൾ ഇൻപുട്ടിന്റെ പീക്ക് വാല്യൂ അറിയണമെങ്കിൽ പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ട് ഉപയോഗിക്കാം അതായത് ഇതുപോലുള്ള ഇൻപുട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിന്റെ പീക്ക് എന്താണ് എന്ന് അറിയാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ ഇതൊരു പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ട് ആണ് ഒരു സിഗ്നലിന്റെ വോൾട്ടേജ് പീക്ക് പിന്തുടരുകയും അതിലെ ഏറ്റവും ഉയർന്ന വാല്യൂ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുകയുമാണ് ഇതു ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഇതാണ് കപ്പാസിറ്റർ നമ്മൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ നൽകുന്നു ഇതിനെ അടിസ്ഥാനമാക്കി കാഥോഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആനോഡ് പോസിറ്റീവാണെങ്കിൽ ഇതൊരു വോൾട്ടേജ് ഫോളോവർ ആയി പ്രവർത്തിക്കും അഥവാ ഇതൊരു ബഫർ ആകും അപ്പോൾ ഇതൊരു വോൾട്ടേജ് ഫോളോവറോ ബഫറോ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്തുതുടങ്ങും ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു സിഗ്നൽ കാണാനും കഴിയും ഇൻപുട്ട് വോൾട്ടേജ് എങ്ങനെയെന്ന് ചിത്രത്തിൽനിന്നു വ്യക്തമാണല്ലോ ഇനി ഇതിന്റെ പീക്ക് ആണ് നമുക്ക് അറിയേണ്ടത് ഇൻപുട്ട് എപ്പോഴാണോ ഈ പ്രത്യേക വാല്യൂ ആകുന്നത് അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തു തുടങ്ങും ഈ വാല്യൂ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും അതിനേക്കാൾ ഉയർന്ന പീക്ക് വരുന്നതുവരെ കപ്പാസിറ്ററിന് അതേ വോൾട്ടേജ് ആണ് ഉണ്ടാവുക ഇൻപുട്ടിൽ മുമ്പത്തെ സിഗ്നലിനേക്കാൾ ഉയർന്നത് എത്തുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്തുതുടങ്ങും അതേ സിഗ്നൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യും അതിനേക്കാൾ ഉയർന്ന പീക്ക് വരുന്നതുവരെ ഈ അവസ്ഥയിൽ തുടരും ഇവിടെ നോക്കൂ ഈ പീക്ക് ഇതിനേക്കാൾ ഉയർന്നതാണ് P1 പീക്ക് 1 P2 പീക്ക് 2 P3 പീക്ക് 3 എന്നിങ്ങനെയാണെങ്കിൽ P3 യേക്കാൾ കുറഞ്ഞതാണ് P2 കപ്പാസിറ്റർ സിഗ്നൽ നോക്കിയാൽ സിഗ്നൽ P1 ഹോൾഡ് ചെയ്യുമ്പോൾ P2 എത്തുന്നു ഉടൻ അതിനെ ഹോൾഡ് ചെയ്യുന്നു അതിനേക്കാൾ കൂടിയ P3 എത്തുമ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ എനിക്ക് ഇൻപുട്ടിൽ വന്ന പീക്ക് വാല്യൂ ഏതാണെന്ന് മനസിലാക്കാം ഏറ്റവും എളുപ്പത്തിൽ മനസിലാക്കാവുന്നതും അത്രതന്നെ എളുപ്പത്തിൽ തയാറാക്കാവുന്നതുമായ സർക്യൂട്ടാണ് ഇത് ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്തൊക്കെയാണ് ഒരു ഡയോഡ് ഒരു കപ്പാസിറ്റർ പിന്നെയൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറും ചിത്രത്തിൽ കാണുന്ന സർക്യൂട്ട് സിഗ്നലിലെ വോൾട്ടേജ് പീക്ക് പിന്തുടർന്ന് ഏറ്റവും ഉയർന്ന വാല്യൂ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു ഇത്രയുമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത് ഒരു ഉയർന്ന പീക്ക് സിഗ്നൽ വരുമ്പോൾ കപ്പാസിറ്റർ പുതിയ പീക്ക് ഇൻപുട്ട് വോൾട്ടേജിലേക്ക് അഥവാ വാല്യൂവിലേക്ക് ചാർജ് ചെയ്യപ്പെടുന്നു ഇവിടം മുതൽ ഇവിടംവരെ നാം കണ്ടത് ഇതാണ് അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതുവരെ പീക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു അത് ആ വാല്യൂ ഹോൾഡ് ചെയ്യുന്നു Vi Vc യേക്കാൾ വലുതാണെങ്കിൽ അതായത് Vi കപ്പാസിറ്ററിനു കുറുകെയുള്ള വോൾട്ടേജിനേക്കാൾ ഉയർന്നതാണെങ്കിൽ ഡയോഡ് D ഫോർവേഡ് ബയാസിൽ ആയിരിക്കും ചിത്രത്തിൽ കാണുന്നതുപോലെ ഇവിടെ ഇവിടത്തെ അപേക്ഷിച്ച് ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും അതുകൊണ്ട് ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആയിരിക്കും അതേസമയം Vi Vc നേക്കാൾ കുറവാണെങ്കിൽ എന്തു സംഭവിക്കും അങ്ങനെയെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസിൽ ആയിരിക്കും നമുക്ക് ആദ്യത്തെ കണ്ടീഷൻതന്നെ കാണാം Vi Vc യേക്കാൾ വലുതായിരിക്കുകയും ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഫോർവേഡ് ബയാസ് ഉള്ളതിനാൽ സർക്യൂട്ട് വോൾട്ടേജ് ഫോളോവർ ആയിമാറും ഔട്ട്പുട്ട് വോൾട്ടേജ് Vo Vc വോൾട്ടേജ് മറികടക്കുന്നതുവരെ Vi നെ പിന്തുടരും ഇനി നേരത്തേ പറഞ്ഞതുപോലെ Vi Vc യേക്കാൾ കുറവാണെങ്കിൽ എങ്ങനെ എന്നുനോക്കാം ഡയോഡ് റിവേഴ്സ് ബയാസിൽ ആയിരിക്കുമെന്നു കണ്ടല്ലോ അപ്പോൾ ആനോഡിൽ ഉള്ള നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കാഥോഡിൽ ഉള്ള വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും അതായത് ഡയോഡ് റിവേഴ്സ് ബയാസിൽ ആണ് ഇതോടെ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്യപ്പെടും നമ്മൾ ഇതു വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതായത് ഡയോഡ് ഇല്ലാതെ ഓപ് ആംപ് മാത്രമുള്ളപ്പോൾ എന്താണ് സംഭവിക്കുക നോക്കൂ ഇവിടെ നമുക്ക് കപ്പാസിറ്റർ ഇല്ല റിവേഴ്സ് ബയാസിൽ ആയതിനാൽ ഡയോഡിന് പ്രവർത്തിക്കാൻ കഴിയാതാവുന്നതോടെ സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെടും അഥവാ ഡയോഡ് സർക്യൂട്ടിൽനിന്ന് ഡിസ്കണക്ട് ചെയ്യപ്പെടും കപ്പാസിറ്റർ ഒരു പീക്ക് ഇൻപുട്ട് വാല്യൂ ഹോൾഡ് ചെയ്തിരിക്കുകയാവും Vc യേക്കാൾ ഉയർന്ന വാല്യൂ ഇൻപുട്ട് സിഗ്നൽ വീണ്ടും നേടുന്നതുവരെ അതേ നില തുടരും അതായത് Vi Vc യേക്കാൾ ഉയർന്നതാവുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തു തുടങ്ങും Vi Vc യേക്കാൾ കുറവാകുമ്പോൾ ഡയോഡ് ഡിസ്കണക്ട് ചെയ്യപ്പെടും അപ്പോൾ കപ്പാസിറ്റർ ഈ വാല്യൂ ഹോൾഡ് ചെയ്യും ഇൻപുട്ട് സിഗ്നൽ എപ്പോൾ ഉയരുന്നുവോ അപ്പോൾ ഡയോഡ് വീണ്ടും കണ്ടക്ട് ചെയ്യുകയും കപ്പാസിറ്ററിൽ വീണ്ടും ഒരു വ്യത്യസ്ത വാല്യൂ എത്തുകയും ചെയ്യും ഉയർന്ന വാല്യൂ അതിൽ ഹോൾഡ് ചെയ്യപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിക്കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്കു സ്വയം സർക്യൂട്ട് രൂപകല്പന ചെയ്യാനും ഈ സർക്യൂട്ടുകളുടെ യഥാർത്ഥ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസിലാവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് നാം പതിയെ നീങ്ങുന്നത് പീക്ക് ഡിറ്റക്ടറിന്റെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ആൻഡ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിറ്റിയൂഡ് മോഡുലേഷൻ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിലും ഉൾപ്പെടും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിരിക്കും എന്താണ് ആംപ്ലിറ്റിയൂഡ് മോഡുലേഷൻസ് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻസ് ഇവയ്ക്കുവേണ്ടിയുള്ള സർക്യൂട്ടുകൾ എപ്രകാരമാണ് ആംപ്ലിറ്റിയൂഡ് മോഡുലേഷൻ കമ്മ്യൂണിക്കേഷനുകളെക്കുറിച്ചു പറയുമ്പോൾ നമുക്ക് ഇന്നു കണ്ടതിനു സമാനമായ പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ടുകൾ കാണേണ്ടിവരും ഇപ്പോൾ നിങ്ങൾക്ക് പീക്ക് ഡിറ്റക്ടർ രൂപകല്പന ചെയ്യാനും അതേക്കുറിച്ച് വ്യക്തമായി അറിയാനും എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഈ പീക്ക് ഡിറ്റക്ടർ ബ്രെഡ്ബോർഡിൽ നിർമിച്ചുനോക്കാം അതിനായി ഇവിടെ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം മൾട്ടിസിം കൂടി ഉപയോഗപ്പെടുത്തി പരീക്ഷിക്കാം ബ്രെഡ്ബോർഡ് ഉപയോഗിക്കുന്നതിൽനിന്ന് അത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നറിയാനാണ് ഇത് അപ്പോൾ പീക്ക് ഡിറ്റക്ടറിന്റെ പ്രവർത്തനം പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ചിത്രം 4ൽ കാണുന്നതുപോലെ നമുക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യാം അതിൽ കാണുന്നതിനു തീർത്തും സമാനമായാണ് നമ്മൾ ചെയ്യുന്നത് കണക്ട് ചെയ്തശേഷം കപ്പാസിറ്ററിനെ ഗ്രൌണ്ടിലേക്ക് ഷോർട്ട് ചെയ്യാം നിങ്ങളിവിടെ ഒരു സ്വിച്ച് ആയി കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ പുറത്താകും V1ൽ ജനറേറ്ററിൽനിന്ന് സൈൻ വേവിൽ 5 കിലോഹെർട്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക 1 വോൾട്ട് വീതമുള്ള ഘട്ടങ്ങളായി നമുക്ക് വോൾട്ടേജ് ഉയർത്തിക്കൊണ്ടിരിക്കാം കപ്പാസിറ്റർ C യ്ക്കു കുറുകെയുള്ള ഔട്ട്പുട്ട് നിരീക്ഷിക്കുക ഈ പ്രത്യേക എക്സ്പെരിമെന്റ് ബ്രെഡ്ബോർഡിൽ കാണിക്കാൻ നമുക്ക് അനിൽ വിഷ്ണുവിനെ സ്വാഗതം ചെയ്യാം സർക്യൂട്ട് ബ്രെഡ്ബോർഡിൽ ഒരുക്കാനും നമ്മെ കാണിക്കാനും അദ്ദേഹം സഹായിക്കും ഇതാ എന്റെ കൈവശം ബ്രെഡ്ബോർഡ് ഉണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു കപ്പാസിറ്ററുണ്ട് ഡയോഡ് ഉണ്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറുണ്ട് നമ്മുടെ ഡയോഡ് കണക്ടഡ് ആണ് ആനോഡ് ടു കാഥോഡ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റർ കാഥോഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ഔട്ട്പുട്ട് കണക്കാക്കേണ്ടതുണ്ട് ഇതാ ഇവിടെയാണ് ഔട്ട്പുട്ട് നിരീക്ഷിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിനു കുറുകയൊണ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടത് ഇതെല്ലാം എപ്പോഴാണ് ചെയ്യേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിനു കുറുകെ ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഓപ് ആംപിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കാണാനാവും അതിനായി നമുക്ക് ഫങ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കേണ്ടിവരും ഇതാ നമ്മുടെ വശം ഡിസി പവർ സപ്ലൈ ഉണ്ട് ഫങ്ഷൻ ജനറേറ്ററുണ്ട് ഒപ്പം ഓസിലോസ്കോപ്പും ഉണ്ട് ആദ്യമായി നാം ബയാസ് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു ഓപ് ആംപിനു കുറുകെ പ്ലസ് 15 മൈനസ് 15 ഇവിടെ കാണുന്നതുപോലെ നൽകുന്നു ഇനി നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് നൽകണം എവിടെയാണ് ഇൻപുട്ട് വോൾട്ടേജ് നൽകേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ അല്ലെങ്കിൽ പീക്ക് ഡിറ്റക്ടറിന്റെ ഇൻപുട്ടിലേക്കാണ് 5 കിലോ ഹെർട്സിൽ 1 വോൾട്ട് പീക് ടു പീക് ഇൻപുട്ട് നൽകേണ്ടത് ഇപ്പോൾ ആദ്യത്തെ പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കു കാണാം ഇനി നാം പീക്ക് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് ഓസിലോസ്കോപ്പിലേക്കു കണക്ട് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഇൻപുട്ട് സിഗ്നലും അതിന് അനുസൃതമായ ഔട്ട്പുട്ട് സിഗ്നലും കാണാനാവും ഇവിടെ കാണുന്നത് 1 വോൾട്ട് 5 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയാണ് ശരി ഇനി നമുക്ക് പതിയെ വോൾട്ടേജ് കൂട്ടിത്തുടങ്ങാം ഇപ്പോൾ നിങ്ങൾക്കു കാണാം 2 6 ആണ് മാക്സിമം പീക്ക് വോൾട്ടേജിനെ അത് പിന്തുടരുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇൻപുട്ട് വോൾട്ടേജ് കുറയ്ക്കുകയാണ് ഇപ്പോഴും ഇൻപുട്ട് സിഗ്നലിനെ പിന്തുടരുന്നുണ്ട് വീണ്ടും കൂട്ടുന്നു ഇപ്പോഴും സിഗ്നൽ പിന്തുടരപ്പെടുന്നു ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസിലാകുന്നത് ഇവിടെ ഏറ്റവും ഉയർന്ന പീക്ക് ഇൻപുട്ട് സിഗ്നലിൽ കാണാം അത് പിന്തുടരപ്പെടുന്നുണ്ട് ഇങ്ങനെയാണ് ഇൻപുട്ട് സിഗ്നലിലെ വോൾട്ടേജ് കൂട്ടിയും കുറച്ചും പീക്ക് ഡിറ്റക്ടർ രൂപകല്പന മനസിലാക്കാവുന്നത് ഇൻപുട്ട് സിഗ്നൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പീക്ക് ഡിറ്റക്ടറിലെ ഔട്ട്പുട്ട് എന്താണെന്നും നിരീക്ഷിക്കുക ഇനി ഇതേ സർക്യൂട്ട് നമുക്ക് മൾട്ടിസിമ്മിൽ ചെയ്തുനോക്കാം അതിനായി നമുക്ക് സീതാറാമിനെ വിളിക്കാം ഇപ്പോൾ സ്ക്രീനിൽ നോക്കൂ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പഴയ ഫയലുകൾ സേവ് ചെയ്യുന്നു ഇതേ സിമുലേറ്ററുകൾ വീണ്ടും ഉപയോഗിക്കേണ്ടിവന്നാൽ അതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു പുതിയ ബ്ലാങ്ക് ഫയൽ ഉണ്ടാക്കി വീണ്ടും അതേകാര്യം ചെയ്യാം ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ കംപാരേറ്റർ ഡ്രാഗ് ചെയ്യാം അതിനുശേഷം ഓപ് ആംപിന്റെ ഔട്ട്പുട്ട് ഡയോഡിലേക്കു കണക്ട് ചെയ്യണം സ്ക്രീനിന്റെ ഇടതുവശത്തു കാണുന്ന സർക്യൂട്ട് അതേപടി നിർമിക്കാനാണ് നാം ഇതിലൂടെ ശ്രമിക്കുന്നത് മൾട്ടിസിമ്മിൽ ഇദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം സൂക്ഷ്മതയോടെ കാണുക ഇത് വീട്ടിൽ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം സർക്യൂട്ടുകൾ ചെയ്തു നോക്കാനും ടെസ്റ്റ് ചെയ്യാനുമുള്ള സൌജന്യ സോഫ്റ്റ് വെയറാണ് ഇത് സിഗ്നൽ കണ്ടശേഷം ഇൻവെർട്ടിംഗിനെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക പവർ സപ്ലൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗ്രൌണ്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതു ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ കഴിയില്ല ഇനി കപ്പാസിറ്ററിനു കുറുകെ സ്വിച്ച് കണക്ട് ചെയ്യുന്നതു നിങ്ങൾക്കു കാണാം ഇപ്പോൾ നാം കാണുന്നത് ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും വോൾട്ടേജ് ആണ് കപ്പാസിറ്ററിനു കുറുകെ ഔട്ട്പുട്ട് സിഗ്നലും നിരീക്ഷിക്കുന്നു സിമുലേഷൻ അമർത്തിയാൽ നിങ്ങൾക്ക് ഇപ്പോൾത്തന്നെ കാണാം ഹൈ വോൾട്ടേജ് ഏകദേശം 1 വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജും ഏകദേശം 1 വോൾട്ടിന് അടുത്താണ് ഇനി നമ്മൾ വോൾട്ടേജ് മാറ്റുന്നു എന്നിരിക്കട്ടെ നോക്കൂ ഇൻപുട്ട് സിഗ്നലിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് പിന്തുടരുന്നത് ശരിയല്ലേ ഇൻപുട്ട് സിഗ്നലിൽ പീക് വോൾട്ടേജിലുള്ള ഏറ്റവും ഉയർന്ന വോൾട്ടേജാണ് ഇവിടെ കാണിക്കുന്നത് ഇൻപുട്ടിൽ വരുത്തുന്ന വ്യത്യാസമനുസരിച്ച് അതേസമയം ഔട്ട്പുട്ടിൽ മാറ്റമുണ്ടാകുന്നത് സിമുലേഷനിലൂടെ വളരെ എളുപ്പത്തിൽ കാണാം ഈ റിസൽറ്റുകൾ ലഭിക്കാൻ ഡിസി പവർ സോഴ്സ് ഫങ്ഷൻ ജനറേറ്റർ ഓസിലോസ്കോപ്പ് എന്നിവയൊന്നും ആവശ്യമില്ല അതേസമയം നിങ്ങൾ സർക്യൂട്ട് യഥാർത്ഥത്തിൽ ബ്രെഡ്ബോർഡിൽ നിർമിക്കുമ്പോൾ ഒട്ടേറെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെയാണ് സിമുലേഷൻ മാത്രമായി ചെയ്യാതെ ബ്രെഡ്ബോർഡിലും സർക്യൂട്ടുകൾ പരീക്ഷിക്കണം എന്നു പറയുന്നത് ഇവിടെ നിങ്ങൾക്കു വ്യക്തമായി കാണാം അദ്ദേഹം വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുന്നതനുസരിച്ച് ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് ഇതു കണ്ടെത്തുന്നുണ്ട് വോൾട്ടേജ് കുറയ്ക്കുമ്പോഴും അതു പിന്തുടരുന്നു കൂട്ടുമ്പോൾ അത് പീക്ക് കണ്ടെത്തുന്നു ഇങ്ങനെയാണ് പീക്ക് ഡിറ്റക്ടർ യാഥ്യാർത്ഥ്യമാക്കുന്നത് പീക്ക് ഡിറ്റക്ടറിന്റെ തിയറി പഠിക്കുക സർക്യൂട്ട് നിർമിക്കുക ബ്രെഡ്ബോർഡിൽ പരീക്ഷിക്കുക അവസാനം സിമുലേഷനും ചെയ്തുനോക്കുക എന്നീ കാര്യങ്ങളാണ് നാം ചെയ്തത് അടുത്ത ക്ലാസിലും നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ കൂടുതൽ ആപ്ലിക്കേഷനുകൾ കാണേണ്ടതുണ്ട് ക്ലാംപർ എന്ന ആപ്ലിക്കേഷനാണ് അടുത്തതായി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്ലാംപർ എങ്ങനെ ഒരു ക്ലാംപർ രൂപകല്പന ചെയ്യാം അതിന്റെ സിമുലേഷൻ ക്ലാംപറിലും ബ്രെഡ്ബോർഡിലും എങ്ങനെ ചെയ്യാം എന്നിവ നമുക്കു നോക്കാം അല്ലെങ്കിൽ ബ്രെഡ്ബോർഡിൽ ചെയ്യേണ്ടതില്ല എന്നും തോന്നുന്നു നിങ്ങൾക്ക് എക്സ്പെരിമെന്റുകൾ സ്വയം നിർവഹിക്കാനാകും എന്ന് ഉറപ്പുള്ളതിനാലാണ് ഒരേ സർക്യൂട്ട് ബ്രെഡ്ബോർഡിൽ കാണിക്കേണ്ട എന്നു കരുതുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെഡ്ബോർഡ് ഉപയോഗിച്ചു വിശദീകരിക്കാനും നിങ്ങൾക്കിപ്പോൾ കഴിയും ഇത്രയും പഠിച്ചതിൽനിന്ന് ബ്രെഡ്ബോർഡ് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ സർക്യൂട്ടുകൾ നിർമിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യത്തിന് അറിവു ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം